നമ്മൾ അടുത്തതായി ഒരു 2 ഡി കേസിലേക്ക് പോകും നമ്മൾ 2 ഡിയിൽ ധാരാളം സമയം ചെലവഴിക്കും കാരണം നമ്മൾ ആരംഭിച്ച സ്കാറ്ററിംഗ് പ്രശ്നം 2 ഡി പ്രശ്നമായിരുന്നു അതിനാൽ നമ്മൾ ഈ ഗ്രീൻ ഫംഗ്ഷൻ ഉപയോഗിക്കും അതിനാൽ നമുക്ക് 2 ഡി ഗ്രീൻ ഫംഗ്ഷനിലേക്ക് പോകാം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ വേവ് ഇക്വേഷൻ നോക്കാം കാരണം നിങ്ങൾ ഇത് മുമ്പ് ഒന്നോ രണ്ടോ തവണ കണ്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ എഴുതിയ വേവ് ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് എങ്ങനെ എത്തി നമ്മൾ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's equations എടുക്കുകയും ചില ലളിതമായ അനുമാനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അവ എന്തായിരുന്നു ഉദാഹരണത്തിന് ടി എം പോളറൈസേഷൻ 2 D പ്രശ്നം ഞാൻ ഉണ്ടാക്കിയ എല്ലാ അനുമാനങ്ങളും ഞാൻ പരിഗണിച്ചിരുന്നു കൂടാതെ ϕ എന്ന വേരിയബിളിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് എഴുതിയിട്ടുണ്ട് മുമ്പത്തെ മൊഡ്യൂളിൽ നിന്നുള്ള എന്റെ Ez ആയിരുന്നു ϕ അതിനാൽ ഈ സമവാക്യം നമുക്ക് പരിചിതമാണ് ഗ്രീൻസ് ഫംഗ്ഷന്റെ നിർവചനവും നമുക്ക് പരിചിതമായിരുന്നു നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബന്ധം ഉപയോഗിച്ചിരുന്നു അതിനാൽ വീണ്ടും ഇത് മിക്കവാറും നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുനരവലോകനമാണ് എനിക്ക് ഗ്രീൻ ഫംഗ്ഷൻ സിദ്ധാന്തം ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഈ G ഒരു തവണ കണക്കാക്കുകയും പിന്നീട് എനിക്ക് എന്ത് f നൽകിയാലും അത് ഉപയോഗിക്കുകയും ചെയ്യും അതാണ് ഗ്രീൻസ് ഫംഗ്ഷന്റെ ആശയം അതിനാൽ ഈ സമവാക്യം ഇവിടെ കണക്കാക്കുകയോ പരിഹരിക്കുകയോ ചെയ്യുക എന്നതാണ് ആദ്യപടി മുമ്പത്തെ കുറച്ച് സ്ലൈഡുകളിൽ നിന്ന് വീണ്ടും ആവർത്തിക്കുന്നു ഈ സമവാക്യങ്ങളുടെ ഉള്ളടക്കം എന്തായിരിക്കും 1 ഉം 2 ഉം പറയുന്നു ഞാൻ എന്താണ് ആരംഭിക്കേണ്ടത് ഓർക്കുക G f എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒബ്ജക്റ്റീവ് ϕ ആണ് അതിനായി എനിക്ക് എന്താണ് വേണ്ടത് എനിക്ക് G വേണം അപ്പോൾ സമവാക്യം 1 2 എന്നിവയിൽ ഞാൻ എന്താണ് തുടങ്ങേണ്ടത് വിദ്യാർത്ഥി 2 2 എന്ത് കൊണ്ട് ഗുണിക്കുന്നു fr′ അതിനാൽ ഞാൻ അവനെ എടുക്കുന്നു fr′ കൊണ്ട് ഗുണിച്ച ശേഷം സംയോജിപ്പിക്കുക പ്രൈം കോർഡിനേറ്റുകളുമായി ബന്ധപ്പെട്ട് ഇരുവശങ്ങളെയും സംയോജിപ്പിക്കുക അതിനാൽ ഞാൻ പ്രൈം കോർഡിനേറ്റുകൾ കൊണ്ട് ഗുണിക്കുന്നതിനാൽ ഒരിക്കൽ കൂടി ഞാൻ അത് എഴുതാം അതിനാൽ fr′ പ്രവേശിക്കുന്നു കാരണം ഓപ്പറേറ്റർ അൺപ്രൈംഡ് കോർഡിനേറ്റുകളിൽ മാത്രം പ്രവർത്തിക്കുന്നു തുടർന്ന് അടുത്ത ഘട്ടം സംയോജിപ്പിക്കുക ഞാൻ അത് സംയോജിപ്പിക്കുമ്പോൾ അത് സമവാക്യം 1 പോലെ കാണപ്പെടുന്നു അതിൽ നിന്ന് ഞാൻ എന്റെ ϕ ∫fr′Grr′dr′ എന്ന് നിഗമനം ചെയ്തു അതിനെ dv′ എന്നോ dr′ എന്നോ വിളിക്കുന്നു ആ മൈനസ് ചിഹ്നം വരുന്നു കാരണം ഇവിടെ നിർവചനത്തിന് ഒരു മൈനസ് ചിഹ്നമുണ്ട് ഞാൻ ഇരുവശത്തും സംയോജിപ്പിക്കുമ്പോൾ ഈ മൈനസ് ചിഹ്നം ഞാൻ കണ്ടെത്തും വെറും കൺവെൻഷൻ വിദ്യാർത്ഥി യഥാർത്ഥത്തിൽ നിങ്ങൾ പ്ലസ് എടുത്തു ഇവിടെ കാരണം ആദ്യം നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി നിങ്ങൾ എടുത്ത പ്രശ്നം അവസാനിക്കുന്നു അതെ അതെ ഇത് കൺവെൻഷന്റെ കാര്യം മാത്രമാണ് അതിൽ വലിയ നിഗൂഢത ഒന്നുമില്ല നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമവാക്യം 2 ൽ നിന്ന് നിങ്ങളുടെ നിർവചനം ശരിയാക്കിക്കഴിഞ്ഞാൽ എല്ലാ മൈനസ് ചിഹ്നങ്ങളും സ്വയം ശ്രദ്ധിക്കുന്നു അതിനാൽ പ്രാഥമികമായി ഈ ഉദാഹരണത്തിൽ ഞാൻ മൈനസ് ചിഹ്നം സൂക്ഷിക്കുന്നു കാരണം വായനയ്ക്കുള്ള റഫറൻസ് മെറ്റീരിയലും ച്യൂവിന്റെ Chew's പുസ്തകത്തിലുള്ള ഒരു മൈനസ് ചിഹ്നം അനുമാനിക്കുന്നു അതിനാൽ നിങ്ങൾ ആ കുറിപ്പുകൾ വായിക്കാൻ തിരികെ പോകുമ്പോൾ ഓരോ സ്ഥലത്തും മൈനസ് ചിഹ്നം ഉപയോഗിച്ച് ഇറങ്ങരുത് മറിച്ച് അത് കൺവെൻഷന്റെ കാര്യം മാത്രമാണെന്ന് അറിയുക വിദ്യാർത്ഥി സർ ഗ്രീനിൽ എവിടെയാണ് ജി ലഭിക്കുന്നത് അതെ അതെല്ലാം ഒന്നുമല്ല അതിനാൽ ഇതാണ് പരിഹാരം ഇപ്പോൾ നമ്മൾ ഇത് പരിഹരിക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും തരം അവബോധജന്യമായ കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ കരുതുന്നു വിദ്യാർത്ഥി പോളാർ പോളാർ കോർഡിനേറ്റുകൾ അതിനാൽ പോളാർ കോർഡിനേറ്റുകളിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ∇2 ഓപ്പറേറ്റർ എന്തായിരിക്കും ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇല്ല അതെ സാധാരണ ആരും അത് ഓർക്കാറില്ല അതിനാൽ നമ്മൾ അത് എഴുതും അതിനാൽ ഇത് 1r ആണ് പോളാർ കോർഡിനേറ്റുകളിലെ ഓപ്പറേറ്റർ operator ∇2 ഇതാണ് അതെ നിങ്ങൾ വിക്കിപീഡിയയിലെ ലേഖനം നോക്കൂ ഓരോ തവണയും അത് എഴുതാൻ ഓർക്കുക പക്ഷേ ഇത് ഇപ്പോഴും സങ്കീർണ്ണമാണെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ലളിതമാക്കുന്ന മറ്റൊരു അനുമാനം എന്താണ് ഈ സമവാക്യം അല്പം ഭൌതികമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം എനിക്ക് ഒരു ഇടത് വശമുണ്ട് അത് ചില ഓപ്പറേറ്ററാണ് വലത് വശം ഏതു പോയിൻറ്ലാണ് ഇംപൾസ് സ്ഥാപിച്ചിരിക്കുന്നത് r r ′ കൂടാതെ ആ ഇംപൾസ് r′ ൽ സ്ഥാപിക്കുമ്പോൾ എന്താണ് പ്രതികരണം എന്ന് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് എങ്ങനെ എന്റെ കേസ് അൽപ്പം എളുപ്പമാക്കാം ആർ തീറ്റ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് ഡെറിവേറ്റീവുകളിൽ നിന്ന് ശരിയായ ആശയമായ തീറ്റയെക്കുറിച്ച് ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തീറ്റ ആശ്രിതത്വം നീക്കം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് എന്റെ കണക്കുകൂട്ടൽ എളുപ്പമാക്കും പിന്നെ എന്തായിരിക്കും അതിനുള്ള വഴി നിങ്ങൾ ഇംപൾസിൽ നിൽക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കോണീയ സമമിതി നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ ഇംപൾസ് ഒരു ഘട്ടത്തിലാണെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കുകയാണെങ്കിൽ തീറ്റയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ചുറ്റുമുള്ളതെല്ലാം സമാനമാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതാണ് ഉള്ളത് നമ്മുടെ ഇംപൾസ് ഇവിടെ r′ ആണെന്നും ഇത് ചില പൊതു പോയിന്റ് r ആണെന്നും പറയാം അതിനാൽ r ൽ നിൽക്കുന്ന ഈ നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ നിൽക്കുന്ന ഒരു നിരീക്ഷകനാണ് ഇംപൾസ് ഇവിടെ അവസാനിച്ചു അപ്പോൾ ഈ നിരീക്ഷകന് എന്തെങ്കിലും കോണീയ സമമിതി ഉണ്ടോ ഒരിക്കലുമില്ല എപ്പോഴാണ് കോണീയ സമമിതി ഉണ്ടാകുക വിദ്യാർത്ഥി r ഇതിനു തുല്യമാകുംപോൾ ഞാൻ r′ ഉത്ഭവത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്ന് കരുതുക ഈ ചെറിയ പരിവർത്തനം ഇവിടെ ചെയ്യുക ഞാൻ r ′ ഇങ്ങോട്ട് നീങ്ങുന്നു ഇത് ഇവിടെ തുടരുന്നു തീറ്റയുമായി ബന്ധപ്പെട്ട് ഈ നിരീക്ഷകൻ എവിടെയായിരുന്നാലും ഞാൻ r ന്റെ അതേ മൂല്യം നിലനിർത്തുകയും ഈ നിരീക്ഷകൻ ഇതുപോലെ ചുറ്റിനടക്കുകയും ചെയ്താൽ തീറ്റയുമായി ബന്ധപ്പെട്ട് ഒരു ദിശാബോധവുമില്ല എന്നാൽ പ്രശ്നത്തിന്റെ ഭൌതികശാസ്ത്രം മാറിയിട്ടുണ്ടോ ഇല്ല ഞാൻ എന്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ സ്ഥാനം തിരഞ്ഞെടുത്തു എന്റെ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ഉത്ഭവം അൽപ്പം സമർത്ഥമായി തിരഞ്ഞെടുത്തതാണ് ഈ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം ലഭിച്ചുകഴിഞ്ഞാൽ ഞാൻ ചെയ്യേണ്ടത് ഉത്ഭവത്തിന്റെ ഷിഫ്റ്റ് മാറ്റുകയും എന്റെ പൊതുവായ പരിഹാരം എനിക്ക് ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് സാമാന്യത നഷ്ടപ്പെടാതെ നമുക്ക് r ′ 0 ൽ ആരംഭിച്ച് ഉത്ഭവത്തിൽ നിന്ന് അകലെയുള്ള എല്ലാ പോയിന്റുകളും പരിഗണിക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ നമുക്ക് കോണീയ സമമിതി ഉണ്ട് അത് ഒരുപാട് അർത്ഥമാക്കുന്നു കോണീയ സമമിതിയുടെ ഭൌതിക പ്രാധാന്യം എന്താണ് എനിക്ക് ലഭിക്കുന്ന ഏത് ഫംഗ്ഷനും ഔട്ട്പുട്ടും അതിന് തീറ്റ ആശ്രിതത്വം ഉണ്ടാകില്ല എന്നതാണ് അതിനാൽ തീറ്റ ആശ്രിതത്വമില്ല ഈ ലാപ്ലാസിയനിലെ മൂന്നാമത്തെ ടേം 0 ആയി സജ്ജീകരിക്കാൻ കഴിയുന്നതിനാൽ എനിക്ക് വളരെ മികച്ചതാണ് ഇത് ഒരു ഏകദേശ കണക്കല്ല അത് കൃത്യമാണ് അതിനാൽ നമുക്ക് എല്ലാം ഒരുമിച്ച് ചേർക്കാം അപ്പോൾ നമുക്ക് എന്താണ് ഉള്ളത് നമ്മുടെ സമവാക്യം ∂2∂r2G ആയി മാറുന്നു ഇപ്പോൾ ഞാൻ G എന്ന് എഴുതും എന്തുകൊണ്ടാണ് ഞാൻ G എഴുതുന്നത് വിദ്യാർത്ഥി ഞാൻ r′ 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഓരോ തവണയും എഴുതുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും വീണ്ടും ഞാൻ δrr ′ എഴുതുന്നില്ല ഇവിടെ ഇത് Gr0 ആണെന്ന് മനസ്സിലാക്കുന്നു വിദ്യാർത്ഥി സർ കോർഡിനേറ്റുകളിൽ നമുക്ക് r θ ϕ ഉണ്ട് ശരിയല്ലേ ഇത് 2D പോളാർ കോർഡിനേറ്റുകളാണ് നിങ്ങൾ 3D സിലിണ്ടർ 3D സിലിണ്ടറിക്കൽ 3D സ്ഫീയറിക്കൽ കോർഡിനേറ്റുകളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അവിടെ r θ ϕ എന്നിവയുണ്ട് എന്നാൽ ഇത് ഒരു 2 D പ്രശ്നം മാത്രമാണ് അതിനാൽ phi ഇല്ല അതിനാൽ ഇത് ഇവിടെ 2 D പോളാർ കോർഡിനേറ്റുകളിൽ എഴുതുക കുറവാണ് എന്നാൽ നമ്മൾ 3D ഉദാഹരണത്തിലേക്ക് നീങ്ങുമ്പോൾ സമമിതി ഉപയോഗിക്കുന്നതിന് സ്ഫീയറിക്കൽ പോളാർ കോർഡിനേറ്റുകൾ എടുക്കും നന്നായി ഇതൊരു രണ്ടാം ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യം പോലെയാണ് ഡിനോമിനേറ്ററിൽ 1 by r ഉണ്ട് അതിനാൽ നമുക്ക് ഇത് എന്തുചെയ്യാനാകുമെന്ന് നോക്കാം യഥാർത്ഥത്തിൽ ഞാൻ ഒരു കാര്യം മറന്നു ഞാൻ പറയുന്നു r 0 അപ്പോൾ വലതുഭാഗം യഥാർത്ഥത്തിൽ എന്തായിരിക്കണം വിദ്യാർത്ഥി 0 0 അതിനാൽ ഞാൻ ഇത് ഇവിടെ എഴുതേണ്ടതില്ല ഇത് 0 എന്ന് എഴുതുക 1 D ഉദാഹരണത്തിൽ ചെയ്തതുപോലെ നമ്മൾ അവസാനം r 0 പോയിന്റ് കൈകാര്യം ചെയ്യും അതിനാൽ ഇപ്പോൾ ഇത് നമ്മൾ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാം ഓർഡർ ഏകതാനമായ ഡിഫറൻഷ്യൽ സമവാക്യമാണ് കുറച്ചുകൂടി പരിചിതമായ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കാം അതിനാൽ അത് ചെയ്യാൻ ഞാൻ ഈ സമവാക്യം എടുത്ത് എല്ലായിടത്തും r2 കൊണ്ട് ഗുണിക്കാൻ പോകുന്നു ഡിനോമിനേറ്ററിൽ 1r ഉള്ളത് എനിക്ക് ഇഷ്ടമല്ല അതിനാൽ ഞാൻ r2 കൊണ്ട് ഗുണിക്കും അതിനാൽ ഞാൻ ലഭിക്കാൻ പോകുന്നു r2 ddr22G r ddrG k2 r2 G 0 അതിനാൽ ഞാൻ r സ്ക്വയർ കൊണ്ട് ഗുണിച്ചു ഇപ്പോൾ നിങ്ങളുടെ ഗണിത കോഴ്സുകളിൽ പ്രത്യേക ഫംഗ്ഷനുകളിൽ കോഴ്സ് ചെയ്തിട്ടുള്ളവർ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത് ഓർക്കും ഈ ബെസൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആരും യഥാർത്ഥത്തിൽ ഓർക്കുകയില്ല പക്ഷേ നിങ്ങൾ അത് നോക്കിയാൽ ഇതാണ് അതെന്ന് ഞാൻ അർത്ഥമാക്കുന്നു അത് പോലെ കാണപ്പെടുന്നു ഇവിടെ α ഒരു സ്ഥിരാങ്കമാണ് അപ്പോൾ ഈ സമവാക്യവും നമ്മുടെ സമവാക്യവും തമ്മിൽ എന്തെങ്കിലും സാമ്യം നിങ്ങൾ കാണുന്നുണ്ടോ ഏതാണ്ട് സമാനമായി കാണപ്പെടുന്നു എനിക്ക് സ്ക്വയർ കൊണ്ട് ഗുണിച്ചാൽ രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഉണ്ട് ലീനിയർ ടേം കൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തെ ഡെറിവേറ്റീവ് x2y അല്ലെങ്കിൽ r2G പദത്തിൽ എന്തെങ്കിലും കുറവുണ്ട് അതായത് വിദ്യാർത്ഥി k k അതിനാൽ നമുക്ക് ആ കെയുമായി ഇടപെടേണ്ടി വരും നമ്മൾ അതിലെത്തും എന്നാൽ ഇവിടെ ഉയർന്ന തലത്തിലുള്ള ആശയപരമായ ആശയം നോക്കാം ഇത് ഒരു രണ്ടാം ഓർഡർ ഡിഫറൻഷ്യൽ സമവാക്യമായതിനാൽ രണ്ട് സ്വതന്ത്ര പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് ബെസ്സലിന് ശേഷമാണ് അതിനാൽ ഈ രണ്ട് സ്വതന്ത്ര പരിഹാരങ്ങൾ ഈ Jα Y α എന്നിവയാണ് അതിനാൽ ഇവയെ ഒന്നാം തരത്തിലും രണ്ടാം തരത്തിലുമുള്ള ബെസൽ ഫംഗ്ഷനുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ ഇത് ഇവിടെ ആദ്യത്തെ തരമാണ് ഇത് രണ്ടാമത്തെ തരമാണ് അതിനാൽ ഇത് ഞാൻ ഒന്നും ഉരുത്തിരിഞ്ഞിട്ടില്ലാത്ത വിവരങ്ങൾ മാത്രമാണ് നമ്മളുടെ ഗ്രീൻ ഫംഗ്ഷൻ റിലേഷൻ Green's function relation മുമ്പുണ്ടായിരുന്ന ഒരു ഡിഫറൻഷ്യൽ സമവാക്യവുമായി വളരെ സാമ്യമുള്ളതാണ് എന്നത് നമുക്ക് വളരെ ഭാഗ്യമാണ് അതിനാൽ എല്ലാ കഠിനാധ്വാനങ്ങളും നമുക്കായി ബഹുമാന്യനായ ബെസ്സൽ ചെയ്തു നമ്മൾ അദ്ദേഹത്തിന്റെ പരിഹാരം ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കേണ്ടതുണ്ട് അതിനാൽ ബെസ്സൽ ഫംഗ്ഷൻ രണ്ട് തരത്തിലുള്ള ജനപ്രിയ രീതികളിൽ എഴുതിയിരിക്കുന്നു ആദ്യത്തേത് ഈ വഴിയാണ് അത് J Y എന്നിവയാണ് രണ്ടാമത്തേത് J Y എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുകളാണ് അവയും പരിഹാരങ്ങളായിരിക്കും J Y എന്നിവയുടെ ലീനിയർ കോമ്പിനേഷനുകളും പരിഹാരങ്ങളായിരിക്കും അതിനാൽ അത് രണ്ടാമത്തെ തരമാണ് ഉദാഹരണത്തിന് ഞാൻ J jY എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത് ലഭിക്കും അതാണ് നിർവചനം അപ്പോൾ ഇതിനെ എന്താണ് വിളിക്കുന്നത് ഇതിനെ ഹാങ്കെൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു വീണ്ടും ആദ്യത്തെ തരത്തിലും രണ്ടാമത്തെ തരത്തിലും ഇത് J jY എന്ന് നിർവചിച്ചിരിക്കുന്നു അതിനാൽ യഥാർത്ഥ പരിഹാരങ്ങളുടെ ലീനിയർ കോമ്പിനേഷനുകൾ ഇപ്പോഴും ഡിഫറൻഷ്യൽ സമവാക്യത്തിനുള്ള പരിഹാരങ്ങളാണ് അതിനാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിനുള്ള പരിഹാരമായ ബെസ്സലിന്റെ ഫംഗ്ഷനുകളോ Bessel's function ഹാങ്കെലിന്റെ ഫംഗ്ഷനുകളോ Hankel's function ഉണ്ടായിരിക്കാം ഞാൻ എങ്ങനെ എന്നെക്കാൾ അൽപ്പം മുന്നിലാണ് എന്നാൽ ഏത് പരിഹാരമാണ് സ്വീകരിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം നിങ്ങൾക്ക് ഒരു ഡിഫറൻഷ്യൽ സമവാക്യം ഉണ്ട് നിങ്ങൾക്ക് G കണ്ടെത്താൻ താൽപ്പര്യമുണ്ട് അത് നമ്മുടെ ലക്ഷ്യമാണെന്ന് ഓർക്കുക കാരണം ഞാൻ G കണ്ടെത്തിക്കഴിഞ്ഞാൽ f മായി കൺവോൾവ് ചെയ്താൽ എന്റെ ϕ നേടാനാകും വിദ്യാർത്ഥി നിങ്ങൾക്ക് J jY എഴുതാം അതെ അതിനാൽ എനിക്ക് J jY എന്ന് എഴുതാം എനിക്ക് H1 b H2 എന്നും എഴുതാം രണ്ടും ശരിയാകും ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് അത് യാഥാർത്ഥ്യമാകുമെന്ന് എനിക്കറിയുമ്പോൾ അത് ഒന്നായിരിക്കാം വൈദ്യുതകാന്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് മാക്സ്വെല്ലിന്റെ Maxwell's സമവാക്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം വിദ്യാർത്ഥി അതിർത്തി വ്യവസ്ഥകൾ അതിർത്തി വ്യവസ്ഥകൾ ഇതുവരെ നമ്മൾ അതിർത്തി വ്യവസ്ഥകളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അതിർത്തി വ്യവസ്ഥകൾ യഥാർത്ഥത്തിൽ ഏറ്റവും സൌകര്യപ്രദമായ ഫോം തിരഞ്ഞെടുക്കാൻ നമ്മളെ സഹായിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാതിനിധ്യം തിരഞ്ഞെടുക്കാം എന്നാൽ 1 ഡിയിൽ ഗ്രീൻ ഫംഗ്ഷൻ കണ്ടത് പോലെ ഒരു ഫോം മറ്റൊന്നിനേക്കാൾ കൂടുതൽ സൌകര്യപ്രദമായിരിക്കും ഇപ്പോൾ ക്ലോസ്ഡ് ഫോം സൊല്യൂഷൻ അല്ലെങ്കിൽ സീരീസ് സൊല്യൂഷൻ പ്രശ്നത്തെ ആശ്രയിച്ച് ഞാൻ ഒന്നോ മറ്റോ തിരഞ്ഞെടുക്കും അതിനാൽ ആ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഉപേക്ഷിക്കും ഇവിടെയുള്ള നമ്മുടെ ഡിഫറൻഷ്യൽ സമവാക്യം നോക്കുമ്പോൾ ഘടകം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ബെസ്സലിന്റെ ഡിഫറൻഷ്യൽ Bessel's differential സമവാക്യത്തിന്റെ രൂപത്തിൽ ഇതുവരെ കൃത്യമായി വന്നിട്ടില്ല വിദ്യാർത്ഥി k2 k ശരിയാണ് അതിനാൽ നമ്മുടെ പ്രശ്നത്തിൽ ഒന്നാമതായി α യുടെ മൂല്യം എന്താണ് വിദ്യാർത്ഥി 0 α എന്നത് 0 ആണ് സ്ഥിരമായ r പദമില്ല α 0 അതിനാൽ ഈ സമവാക്യം പരിവർത്തനം ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യും നമ്മുടെ സമവാക്യം 1 സമവാക്യം 2 ആക്കി മാറ്റുന്നത് എങ്ങനെ വിദ്യാർത്ഥി പുതിയ വേരിയബിളായി kr ഇടുക പുതിയ വേരിയബിളായി kr ഇടുക അതിനാൽ ഞാൻ kr ഇട്ടത് x ന് തുല്യമാണെന്ന് കരുതുക അതിനാൽ ഞാൻ dψdr എടുക്കുകയാണെങ്കിൽ dψdr എന്നത് ഏതെങ്കിലും ഫംഗ്ഷനെക്കുറിച്ചാണ് എനിക്ക് വിഷമിക്കേണ്ടത് എനിക്ക് അത് ചെയിൻ റൂൾ ഉപയോഗിച്ച് dψdx dxdr എന്ന് എഴുതാം ഇത് എന്തായിത്തീരുന്നു dxdr വിദ്യാർത്ഥി k അങ്ങനെ അത് k ആയി മാറുന്നു അതിനാൽ ഇത് k dψdx ആയി മാറുന്നു ഇത് വിചിത്രമായി തോന്നുന്നു dx അതെ അപ്പോൾ ആ പകരം വയ്ക്കൽ കൊണ്ട് ഈ സമവാക്യം എന്താകും അതിനാൽ r എന്നത് x ആയി പകരം വയ്ക്കപ്പെടും വിദ്യാർത്ഥി k k അതിനാൽ എനിക്ക് x2k2 സെക്കന്റ് ടേം ആയി വിദ്യാർത്ഥി x2k2 ഇത് k അല്ലെങ്കിൽ k2 ആയി മാറുമോ k2 കാരണം രണ്ടാമത്തെ ഡെറിവേറ്റീവ് ഞാൻ ഈ ചെയിൻ റൂൾ പ്രയോഗിക്കുമ്പോൾ അത് വീണ്ടും k2 ആയി മാറും അതിനാൽ ഇത് k2d2Gdx2 ആയി മാറും വെറുതെ എഴുതട്ടെ അതായത് നമുക്ക് അത് r എന്ന് എഴുതാം എനിക്ക് ഇത് xk ആയി എഴുതാം അതേ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ xk എന്ന് എഴുതാം അടുത്ത പദം kxk ddxG x2G എന്നത് 0 ന് തുല്യമാണ് അതിനാൽ നമുക്കെല്ലാവർക്കും സൌകര്യപ്രദമായി എല്ലാ k കളും റദ്ദാക്കി എനിക്ക് കൃത്യമായി ലഭിക്കുന്നു ബെസലിന്റെ ഡിഫറൻഷ്യൽ Bessel's differential സമവാക്യം ഇപ്രകാരമാണ് അതിനാൽ പൊതുവായ രൂപം എഴുതാം ഇത് കൃത്യമായി ബെസ്സലിന്റെ ഡിഫറൻഷ്യൽ Bessel's differential സമവാക്യമാണെന്ന് എനിക്കറിയാം അതിനാൽ എനിക്ക് G തുല്യമാകുമെന്ന് എഴുതാം എന്നതാണ് പരിഹാരം അതിനാൽ നമുക്ക് ഹാങ്കെൽ രൂപം സ്വീകരിക്കാം എനിക്ക് ബെസൽ രൂപം സ്വീകരിക്കാമായിരുന്നു പക്ഷേ എനിക്ക് ഹാങ്കൽ രൂപവും സ്വീകരിക്കാൻ കഴിയും അതിനാൽ ഒരു H0bH0 ഇത് ഡിഫറൻഷ്യൽ സമവാക്യത്തിനുള്ളിലെ ഒബ്ജക്റ്റാണ് അതിനാൽ ഇതിന്റെ പരിഹാരം രണ്ട് പരിഹാരങ്ങളുടെ രേഖീയ സംയോജനമാണ് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല എന്നാൽ x എന്നത് നമ്മുടെ ഇന്റർമീഡിയറ്റ് വേരിയബിളാണെന്ന് ഓർക്കുക എനിക്ക് x ൽ താൽപ്പര്യമില്ല അതിനാൽ ഞാൻ വീണ്ടും പകരം വയ്ക്കുകയും r എന്നതിന്റെ അടിസ്ഥാനത്തിൽ പരിഹാരം നേടുകയും വേണം അങ്ങനെ അത് ഇടതുവശത്ത് G a H0 b H0 ആയി മാറും r എന്നത് H ആകുന്ന സമയത്തിന് തുല്യമാണ് വിദ്യാർത്ഥി k r അതിനാൽ ഈ രണ്ട് ഫംഗ്ഷനുകളും അങ്ങനെയാണ് ഗ്രീൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതുകൊണ്ട് അധികം പ്രയത്നമില്ലാതെ ആ ശ്രമം ബെസ്സൽ ചെയ്തുവെന്ന് തോന്നുന്നു നമുക്ക് r ലഭിച്ചു ഗ്രീൻ ഫംഗ്ഷനുവേണ്ടിയുള്ള ബെസ്സലിന്റെ ചില രൂപങ്ങൾ നമുക്ക് ലഭിച്ചു ഒരു ചെറിയ വിവരം മാത്രം ഈ പ്രവർത്തനങ്ങൾ J0 Y0 എന്നിവ എങ്ങനെയാണ് ചെയ്യുന്നത് അവർ എങ്ങനെ കാണപ്പെടുന്നു J0 ഉം Y0 ഉം കാരണം അതാണ് H1 ഉം H2 ഉം നിർമ്മിച്ചിരിക്കുന്നത് അവർ എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ ഞാൻ അത് ഇവിടെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് x ആയി പ്ലോട്ട് ചെയ്യാം അതിനാൽ J0 ഇതുപോലെ കാണപ്പെടുന്നു അതിനാൽ ഇത് എന്റെ J0 ആണ് മറുവശത്ത് എന്റെ Y0 ന് യഥാർത്ഥത്തിൽ ഉത്ഭവത്തിൽ ഒരു ഏകത്വമുണ്ട് വലിയ r ന് രണ്ടും ക്ഷയിക്കുന്നു അതിനാൽ ഈ ഫംഗ്ഷൻ എങ്ങനെയിരിക്കും എന്നതിന്റെ ഭൌതികമായ ഗണിതശാസ്ത്രപരമായ അവബോധമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഈ ഗ്രീൻ ഫംഗ്ഷൻ G യുടെ ഗണിതശാസ്ത്രപരമായ ബുദ്ധിമുട്ട് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് r എന്നത് 0 ന് തുല്യമാണ് കാരണം Y വർദ്ധിക്കാൻ പോകുന്നു അതിനാൽ ഇത് നിങ്ങളുടെ ഗ്രീൻ ഫംഗ്ഷനിൽ നിന്ന് വ്യത്യസ്തമാണ് 1 D ഉദാഹരണത്തിൽ നിന്ന് വർദ്ധിച്ചില്ല ഇത് പൊട്ടിത്തെറിക്കുന്നു അതിനാൽ ഇത് കൈകാര്യം ചെയ്യുന്നത് അൽപ്പം രസകരമായിരിക്കും എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത്